ഹലോ സ്വാഗതം അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചില ക്ലോക്കിംഗ് പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതിനാൽ ഡീലേ സ്കൂ ഒരു ക്ലോക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫീഡ് ചെയ്യുമ്പോൾdelay skew and when a clock feeds a flip flopചില സമയങ്ങളിൽ ഹോൾഡ് സമയവുംസെറ്റപ്പ് സമയങ്ങളുംപോലുള്ള ചില ക്ലോക്ക് സംബന്ധമായ പരാമീറ്ററുകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അതിനാൽ ഈ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ ഒരു പ്രശ്നവുമില്ലാതെ ഫലപ്രദമായ ക്ലോക്ക് പിരീഡ്അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ക്ലോക്ക് ഫ്രീക്വൻസി കണക്കുകൂട്ടുന്നതിനായി ഈ സമയം എങ്ങനെ ഒരു ഡിസൈനിൽ ഉൾപ്പെടുത്താമെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ ഇന്ന് ഞങ്ങളുടെ ചർച്ച തുടരുന്നു ക്ലോക്ക് നെറ്റ്വർക്ക് സിന്തസിസ്എന്ന് വിളിക്കപ്പെടുന്ന പ്രശ്നം ഞങ്ങൾ ആദ്യം പരിഗണിക്കും അതിനാൽ ക്ലോക്ക് സിഗ്നൽ ബന്ധിപ്പിക്കേണ്ട ടെർമിനൽ പോയിന്റുകളിലേക്ക് ഞങ്ങൾ അത് എങ്ങനെ വിതരണം ചെയ്യുന്നുവെന്ന് ഒരു ക്ലോക്ക് ഉറവിടം നൽകി ഒടുവിൽ പവർ നെറ്റ് റൂട്ടിംഗിന്റെചില പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കും അതായത് Vdd ഉം ഗ്രൌണ്ടും അതിനാൽ ഞങ്ങൾ ക്ലോക്ക് നെറ്റ്വർക്ക് സമന്വയത്തോടെ ആരംഭിക്കുന്നു അതിനാൽ പ്രശ്ന ഫോർമുലേഷൻഇനിപ്പറയുന്ന രീതിയിൽ പോകുന്നു നിങ്ങൾ ക്ലോക്കിനും പവർ നെറ്റ്സിനുംകാണുന്നത് പോലെ ചില പ്രത്യേക ആവശ്യകതകളുണ്ട് നേരത്തെ നോക്കിയ റൂട്ടിംഗ് അൽഗോരിതങ്ങൾഅവർ സിഗ്നൽ നെറ്റ്സ് രണ്ട് ടെർമിനൽ അല്ലെങ്കിൽ മൾട്ടി ടെർമിനൽനെറ്റ് എന്നിവ പരിഗണിച്ചു ഈ സിഗ്നൽ നെറ്റ്സ് അടിസ്ഥാനപരമായി ചില ഡിജിറ്റൽ സിഗ്നലുകൾ 0 അല്ലെങ്കിൽ 1 വഹിക്കുന്നു ഈ സിഗ്നൽ നെറ്റ്സ് ന്റെ ഒരു സ്വഭാവം ഈ നെറ്റ്സ് ന്റെ അളവാണ് ഇതിനർത്ഥം ഈ മൾട്ടി ടെർമിനൽ നെറ്റ് കണക്ട് ചെയ്യുന്ന പോയിന്റുകളുടെ എണ്ണം വളരെ ഉയർന്നതല്ല കാരണം നിങ്ങൾക്ക് ഒരു ഗേറ്റ് ധാരാളം ഫാൻ ഔട്സ് കളുണ്ടെങ്കിൽ ശേഷി കാരണം ലോഡ് ഉയരുന്ന സമയവും വീഴ്ചയുടെ സമയവും വർദ്ധിക്കും പ്രകടനം തരംതാഴ്ത്തും അതിനാൽ ഇത്തരത്തിലുള്ള നെറ്റ് കളുടെ പ്രശ്നം വ്യത്യസ്തമായിരുന്നു ഉദാഹരണത്തിന് ചാനൽ റൂട്ടിംഗിൽട്രാക്കുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഏക ലക്ഷ്യം വയറുകളുടെ വലുപ്പം ഞങ്ങൾ പരിഗണിച്ചില്ല അതിനർത്ഥം വയറുകൾക്ക് സാധ്യമായ ഏറ്റവും ചെറിയ വീതി ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നു കാരണം ഫാൻ ഔട്ട് പരിമിതമായതിനാൽ ഈ വയറുകളിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര നിശ്ചിത പരിധി കടക്കില്ല അതിനാൽ അതായിരുന്നു ഞങ്ങളുടെ അനുമാനം എന്നാൽ ഞങ്ങൾ ക്ലോക്കിനെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അത് അങ്ങനെയല്ല ക്ലോക്കിനെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു നെറ്റ് ൽ വലിയ അളവിലുള്ള വലകൾ പറയാം അവ ഒരു ചിപ്പിൽ ധാരാളം പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നു ക്ലോക്ക് സിഗ്നലുകൾ നൽകേണ്ട ആയിരക്കണക്കിന് പോയിന്റുകൾ ഉണ്ടെന്ന് ഒരു സാധാരണ ചിപ്പിൽ പറയുക വീണ്ടും ഓരോ ബ്ലോക്കിനും നമുക്ക് വൈദ്യുതി വിതരണവും ഗ്രൌണ്ട് ലൈനുകളുംറൂട്ട് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇവ വലകളുടെ ഉദാഹരണങ്ങളാണ് അവിടെ ടെർമിനൽ പോയിന്റുകളുടെ എണ്ണം ആയിരങ്ങളോ അതിലധികമോ ആകാം അതിനാൽ ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ചില റൂട്ടിംഗ് ആവശ്യമാണ് വീണ്ടും ക്ലോക്കിനായി ഞങ്ങൾ വളവുകളും മറ്റ് പ്രശ്നങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് തികച്ചും സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു അതിനാൽ ഇത്തരത്തിലുള്ള നെറ്റ് സ് കൈകാര്യം ചെയ്യാനും റൂട്ട് ചെയ്യാനും ഞങ്ങൾക്ക് വ്യത്യസ്ത തന്ത്രങ്ങളുടെ ഒരു കൂട്ടം ആവശ്യമാണ് അതിനാൽ അവരുടെ നിർദ്ദിഷ്ട ആവശ്യകതകൾ കാരണം പ്രചോദനം ഇപ്രകാരമാണ് അതിനാൽ പ്രത്യേക റൂട്ടിംഗ് അൽഗോരിതങ്ങൾ വികസിപ്പിക്കാനോ രൂപപ്പെടുത്താനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ സാധാരണ സിഗ്നൽ നെറ്റ്സ് ഉംക്ലോക്കും പവർ നെറ്റ് സ്കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ റൂട്ടർ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ ആവശ്യകതകൾ വളരെ വ്യത്യസ്തമാണ് കൂടാതെ ഈ വലകളുടെ ഒരു ഭാഗമെങ്കിലും ഘടികാരവും ശക്തിയും സ്വമേധയാ റൂട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് അതിനാൽ ക്ലോക്ക് നെറ്റിനായി ഉയർന്ന പ്രകടന രൂപകൽപ്പനയ്ക്ക് ഞങ്ങൾക്ക് ചില സങ്കീർണ്ണമായ വിശകലനങ്ങളും വളരെ കൃത്യമായ റൂട്ടിംഗ് ഉപകരണങ്ങളും ആവശ്യമാണ് അങ്ങനെ ക്ലോക്കിന്റെ വക്രതയും ജിറ്റർ പാരാമീറ്ററുകളുംനിയന്ത്രിക്കാൻ അതിനാൽ ക്ലോക്ക് റൂട്ടിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ക്ലോക്ക് സിൻക്രൊണൈസേഷൻതീർച്ചയായും ഡിജിറ്റൽ സിസ്റ്റങ്ങളിലെഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് അവ അല്ലെങ്കിൽ മിക്ക ഭാഗങ്ങളും പ്രകൃതിയിൽ സമന്വയിപ്പിക്കുന്നത് അർത്ഥമാക്കുന്നത് അവ ഒരു ഘടികാരത്താൽ നയിക്കപ്പെടുന്നു എന്നാണ് അതിനാൽ ഒരു ഘടികാരത്താൽ നയിക്കപ്പെടുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ചില പ്രവർത്തന ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് നമുക്ക് F1 എന്ന് പറയാം F2 മറ്റൊരു പ്രവർത്തന ബ്ലോക്ക് ഉണ്ട് അതിനാൽ നമുക്ക് 2 മാത്രം പരിഗണിക്കാം അതിനാൽ അവയ്ക്കിടയിൽ ചില കോമ്പിനേഷണൽ സർക്യൂട്ടുകൾഉണ്ടാകാം ഇതാണ് നമുക്ക് പറയാം ഇവ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ ചില കോമ്പിനേഷണൽ സർക്യൂട്ട് നമ്മൾ ഈ ഫങ്ഷണൽ ബ്ലോക്ക് F1 F2 എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭരണമാണ് അതായത് ഇതിൽ ചില ഫ്ലിപ്പ് ഫ്ലോപ്പുകളോ ലാച്ചുകളോ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഈ F1 ഔട്ട്പുട്ട് കോമ്പിനേഷണൽ ലോജിക് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്നിവയിലേക്ക് പോകും ഇതിന്റെ ഔട്ട്പുട് ഇവിടെ വരും എവിടെനിന്നെങ്കിലും ഒരു ക്ലോക്ക് ഉറവിടം ഉണ്ടാകും അവിടെ നിന്ന് എനിക്ക് ഇവിടെ ഒരു ക്ലോക്ക് സിഗ്നൽ കണക്റ്റുചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഞാൻ കണക്ട് ചെയ്യണം ക്ലോക്ക് സിഗ്നൽഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ F1 F2 എന്നിവയുടെ ആവശ്യകത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഒരു ചിപ്പിനുള്ളിൽ നിങ്ങൾ ഇത് ചിപ്പിന്റെ ലേഔട്ട് ട ആയി പരിഗണിക്കുകയാണെങ്കിൽ ഈ F1 ഉം F2 ഉം വളരെ അടുത്താണെങ്കിൽ F1 ഇവിടെയാണെന്നും F2 വളരെ അടുത്താണെന്നും പറയുക അപ്പോൾ ക്ലോക്ക് ഉറവിടം എവിടെയായിരുന്നാലും ഈ ക്ലോക്ക് ടെർമിനൽ പോയിന്റുകൾകഴിയുന്നത്ര അടുത്ത് നിർത്താൻ കഴിയുമെങ്കിൽ F1 F2 എന്നിവയിലെത്താൻ ക്ലോക്ക് ഏതാണ്ട് തുല്യമായിരിക്കും എന്നാൽ പൊതുവേ ഇത് സാധ്യമല്ല ഈ F1 F2 എന്നിവ ഈ ചിപ്പിലെ ഏകപക്ഷീയമായ സ്ഥലങ്ങളിൽ സ്ഥിതിചെയ്യാം അതായത് ഈ F1 F2 എന്നിവയിൽ എത്തുമ്പോൾ ക്ലോക്ക് സിഗ്നൽ കാലതാമസം വ്യത്യസ്തമായിരിക്കും അതായത് ക്ലോക്ക് സ്ക്യൂഉണ്ടാകും ക്ലോക്ക് ജിറ്റർ ജിറ്റർ ഞങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഞങ്ങൾ പരിഗണിക്കുന്നത് സ്കുവാണ് അതോടൊപ്പം തമാശയും യാന്ത്രികമായി വരും അതിനാൽ ഒരു പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഒരു ക്ലോക്ക് സൃഷ്ടിക്കുമ്പോൾ അത് ഒരു ചിപ്പിലെ വ്യത്യസ്ത പോയിന്റുകളിലേക്ക് അയയ്ക്കുകയോ റൂട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ആശയം അതിനാൽ കാലതാമസം ഏകദേശം തുല്യമാകുന്ന വിധത്തിൽ ഇത് റൂട്ട് ചെയ്യണം ഇത് പ്രധാന ആവശ്യകതകളിൽ ഒന്നാണ് ശരിയാണ് അതിനാൽ പൊതുവായ ക്ലോക്ക് റൂട്ടിംഗിന് പരിഗണന അതാണ് അതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണയായി ഒരു ക്ലോക്ക് സിഗ്നലിനെസംബന്ധിച്ചിടത്തോളം സമന്വയിപ്പിക്കുന്നു കൂടാതെ നമുക്ക് ചരിവ് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഏറ്റവും വേഗതയേറിയ ക്ലോക്ക് ഉപയോഗിക്കാം കാരണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നേരത്തേ ഞാൻ സൂചിപ്പിച്ചത് ചരിവും മറ്റ് അത്തരം കാലതാമസങ്ങളും കാരണം ഞങ്ങളുടെ ക്ലോക്ക് സമയ കാലയളവ് വർദ്ധിക്കുന്നു അതായത് നമ്മുടെ ഫലപ്രദമായ ആവൃത്തി കുറയുന്നു അതിനാൽ സാധ്യമായ ഏറ്റവും വേഗതയേറിയ ഘടികാരമായി ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ കാലതാമസത്തിന്റെയോ അനിശ്ചിതത്വത്തിന്റെയോ രാജാവായ ഈ വക്രത കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഇപ്പോൾ ചില പദങ്ങൾ അതിനാൽ ഒരു ചിപ്പിലേക്ക് നൽകുന്ന ക്ലോക്ക് സിഗ്നൽ മിക്കപ്പോഴും അത് ആധുനിക സംവിധാനത്തിന് ഒരു ചിപ്പിന് ബാഹ്യമായി സൃഷ്ടിക്കപ്പെടുന്നു കൂടാതെ ക്ലോക്ക് സിഗ്നൽ ചിപ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രത്യേക പോയിന്റും അതിനാൽ ക്ലോക്ക് സിഗ്നൽ ചിപ്പിലേക്ക് പ്രവേശിക്കുന്ന ക്ലോക്ക് പിൻഎന്ന് ഞങ്ങൾ പരാമർശിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരു ക്ലോക്ക് പിൻ എന്ന് പരാമർശിക്കുന്നു ഇപ്പോൾ ഈ ക്ലോക്ക് പിൻ മുതൽ ക്ലോക്ക് സിഗ്നൽ ആവശ്യമുള്ള എല്ലാ പോയിന്റുകളിലേക്കും ഞങ്ങൾ കണക്ഷനുകൾ അയയ്ക്കണം ഇതിനെ ക്ലോക്ക് നെറ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ക്ലോക്ക് നെറ്റ് എന്നത് ഒരു അറ്റത്ത് വരുന്ന ക്ലോക്ക് പിൻയിൽ നിന്ന് ആ വയർ റൂട്ടിംഗ് ആണ് ക്ലോക്ക് സിഗ്നൽ ആവശ്യമുള്ള എല്ലാ പോയിന്റുകളിലേക്കും ഞാൻ കണക്ഷനുകൾ അയയ്ക്കണം മുഴുവൻ നെറ്റിനെയും ക്ലോക്ക് നെറ്റ് എന്ന് വിളിക്കുന്നു ക്ലോക്ക് നെറ്റ് റൂട്ടിംഗാണ് ഞങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം അതിനാൽ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്താണ് ഞാൻ സംസാരിച്ച പ്രവർത്തന യൂണിറ്റുകൾ അതിനാൽ ഈ F1 F2 ഞാൻ സംസാരിച്ച രണ്ട് ഫംഗ്ഷനുകൾ അത്തരം പലതും ഉണ്ടാകാം ഈ ഫങ്ഷണൽ യൂണിറ്റുകൾ ചിപ്പിലുടനീളം വിതരണം ചെയ്യാൻ കഴിയും എന്നാൽ ക്ലോക്ക് സിഗ്നൽ ഈ യൂണിറ്റുകളിലെല്ലാം ഒരേ സമയം എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് നേടിയാൽ പിന്നെ ക്ലോക്ക് സ്ക്യൂ ഉണ്ടാകില്ലെന്ന് നമുക്ക് പറയാം പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ പ്രായോഗികമായി ഈ അനുയോജ്യമായ സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാകില്ല അതിനാൽ ഞങ്ങൾ ക്ലോക്ക് സ്കുവോടെ ജീവിക്കേണ്ടിവരും ക്ലോക്ക് സ്ക്യൂ എന്താണ് എന്ന് ഓർക്കാൻ ക്ലോക്ക് സ്ക്യൂ ആണ് ക്ലോക്ക് സിഗ്നൽ രണ്ട് വ്യത്യസ്ത ക്ലോക്ക് പോയിന്റുകളിൽ എത്തുന്നത് അവയ്ക്കിടയിൽ ആപേക്ഷിക കാലതാമസം ഉണ്ടാകും ഒന്നാമത്തെ ക്ലോക്ക് ഈ ആദ്യ ക്ലോക്ക് കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലോക്ക് അല്ലെങ്കിൽ തിരിച്ചും കാരണം രണ്ട് പിനുകളും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വയറുകളുടെ അസമമായ നീളവും പരസിറ്റിക് റെസിസ്റ്റന്സസ് ന്റെ പ്രതിരോധത്തിലും കപ്പാസിറ്റൻസിലും വ്യത്യാസമുണ്ട് ഡ്രൈവർമാർക്ക് വിവിധ പാരാമീറ്ററുകൾ ഉണ്ട് കാലതാമസം വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ ക്ലോക്ക് സ്കു ശരിയാക്കാം അതിനാൽ ക്ലോക്ക് സ്ക്യൂ എന്തെല്ലാം വ്യക്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തമായ സമീപനം ഒരു തരത്തിലുള്ള യാഥാസ്ഥിതിക രൂപകൽപ്പന നടപ്പിലാക്കുക എന്നതാണ് അതായത് ഞാൻ സുരക്ഷിതമായി കളിക്കുന്നു ഞാൻ പറയുന്നത് ക്ലോക്ക് സ്ക്യൂ അവിടെ നിൽക്കട്ടെ ക്ലോക്ക് പിരീഡിന്റെ 10 ശതമാനമോ 15 ശതമാനമോ സ്കെവിനായി സൂക്ഷിക്കുമെന്ന് പറയട്ടെ അതിനാൽ ആ കണക്കുകൂട്ടൽ ഉപയോഗിച്ച് എനിക്ക് ക്ലോക്ക് ആവൃത്തി കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് സമയപരിധി വർദ്ധിപ്പിക്കാൻ കഴിയും ഇതാണ് യാഥാസ്ഥിതിക രൂപകൽപ്പനഎന്ന് വിളിക്കപ്പെടുന്നത് എന്നാൽ ഉയർന്ന പ്രകടന സംവിധാനങ്ങൾക്കായി നിങ്ങൾ ഇത്രയും യാഥാസ്ഥിതികനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആവൃത്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ചരിവ് കഴിയുന്നത്ര കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആവൃത്തിയിൽ 10 ശതമാനം വർദ്ധനവുണ്ടെങ്കിലും പ്രകടനത്തിൽ വളരെ മികച്ച പുരോഗതിയിലേക്ക് ഞങ്ങൾ നയിക്കും അതിനാൽ ക്ലോക്കിംഗിലെ ചില ലളിതമായ ആശയങ്ങൾ അതിനാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ക്ലോക്ക് സിഗ്നൽ ഇതുപോലെ കാണപ്പെടുന്നു ഇത് ഒരു ആനുകാലിക സ്പന്ദന സിഗ്നലുകൾ 0 മുതൽ 1 വരെയും 1 വരെയും പോകുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ ആശ്രയിച്ച് അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായവ ഉണ്ടാകാം തരം ക്ലോക്കിംഗ് സ്കീമുകൾ നിങ്ങൾക്ക് സിംഗിൾ ഫേസ് ക്ലോക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ഫേസ് ക്ലോക്കിംഗ് പ്രത്യേകിച്ചും രണ്ട് ഫേസ് വളരെ ജനപ്രിയമാണ് കൂടാതെ നിങ്ങൾ ക്ലോക്കിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ഘടകങ്ങളായി ലാച്ചുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്റ്റോറേജ് ഘടകങ്ങളായി ഫ്ലിപ്പ് ഫ്ലോപ്പുകളും ഉണ്ടാകും അപ്പോൾ തിരിച്ചുവിളിക്കാൻ മാത്രം ഒരു ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ക്ലോക്ക് ഉയർന്നിരിക്കുന്നിടത്തോളം കാലം ഡാറ്റ സംഭരിക്കപ്പെടുന്ന ഒരു സംഭരണ ഉപകരണമാണ് ഒരു താട്ട് തുറന്നിരിക്കുന്നു ഈ സമയത്ത് ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അതനുസരിച്ച് സംഭരിക്കപ്പെടും എന്നാൽ ഒരു ക്ലോക്കിൽ ഞങ്ങൾ സാധാരണയായി ഒരു ക്ലോക്ക് ട്രിഗർചെയ്തു ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്കിലൂടെ ചില അരികുകളുമായി ബന്ധപ്പെട്ട് ട്രിഗർ ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്തതോ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്തതോ പോലെ രൂപകൽപ്പന ചെയ്യുന്നു അതിനാൽ എഡ്ജ് സംഭവിക്കുന്നിടത്ത് കൃത്യമായി ഇൻപുട്ട് മൂല്യം എടുക്കുകയും അനുബന്ധ മൂല്യം സംഭരിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ക്ലോക്ക് എഡ്ജ് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം ഇൻപുട്ടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇനി പ്രതിഫലിക്കില്ല അതിനാൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രിസൈസ്précised timesചെയ്ത സമയങ്ങളെക്കുറിച്ചാണ് കൃത്യമായി ഈ സമയത്ത് ക്ലോക്ക് എഡ്ജ് സംഭവിക്കുന്നത് ഇൻപുട്ട് എന്തുതന്നെയായാലും ഞാൻ അത് എടുക്കും തീർച്ചയായും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ സജ്ജീകരണവും കൈവശം വയ്ക്കേണ്ട സമയവും കണക്കിലെടുക്കണം പക്ഷേ തൽക്കാലം ഞാൻ സജ്ജീകരണം അവഗണിക്കുകയും സമയങ്ങൾ പിടിക്കുകയും ചെയ്യുന്നു ക്ലോക്ക് എഡ്ജ് വരുമ്പോഴെല്ലാം കൃത്യമായി ഇൻപുട്ട് ലഭിക്കുമെന്ന് ഞാൻ പറയുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്നു ക്ലോക്ക് ഉയരുമ്പോൾ സ്റ്റോറേജ് തുറന്നിരിക്കുന്നതും ഇൻപുട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതുവരെ ഈ സമയം മാറിയാലും അന്തിമ മൂല്യം ഒടുവിൽ സംഭരിക്കപ്പെടും ഞാൻ പറഞ്ഞത് പോലെ ഒരു ലാച്ചിൽ വ്യത്യസ്തമായി അതിനാൽ നമുക്ക് ഇവ ഓരോന്നായി നോക്കാം അതിനാൽ ലാച്ചുകളുള്ള സിംഗിൾ ഫേസ് ക്ലോക്കിംഗ് സിംഗിൾ ഫേസ് എന്നാൽ ഇവിടെ ഞാൻ കരുതുന്നത് എന്റെ സ്കീമാറ്റിക് ഇതുപോലെയാണ് ഇത് ഒരു ഡി ടൈപ്പ് ലാച്ച് ഡി ഇൻപുട്ട് ക്യു ഔട്ട്പുട്ട് എനിക്ക് ഒരു ക്ലോക്ക് ഉണ്ട് സിംഗിൾ ക്ലോക്ക് എന്നാൽ എനിക്ക് ഒരു സിംഗിൾ ഫേസ് ക്ലോക്ക് ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ലാച്ച് ആക്റ്റിവേറ്റ് ചെയ്യപ്പെടുന്നു ക്ലോക്ക് ഉയരത്തിൽ പോകുമ്പോഴും ക്ലോക്ക് ഉയർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഡിയിലുള്ള എന്തും സ്വീകരിച്ച് ലാച്ചിൽ സൂക്ഷിക്കും അങ്ങനെ ക്ലോക്ക് 0 ആയിത്തീരുമ്പോൾ ഞാൻ പറയുന്നത് അതാണ് എന്റെ ക്ലോക്ക് സിഗ്നൽ ഇങ്ങനെയാണെന്ന് കരുതുക എന്റെ ഡി സിഗ്നൽ മാറുന്നുവെന്ന് പറയട്ടെ ചില കാരണങ്ങളാൽ അത് മാറുകയും അത് സ്ഥിരതയോടെ തുടരുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ Q ഔട്ട്പുട് നോക്കുകയാണെങ്കിൽ ക്ലോക്ക് ഉയരുന്ന സമയമാണിത് അതിനാൽ ഡിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും തീർച്ചയായും ഒരു ചെറിയ കാലതാമസം ഉണ്ടാകും അതിനാൽ ഈ ക്യൂ ഡി പിന്തുടരും പക്ഷേ ആ സമയത്ത് ക്ലോക്ക് 0 ആകുന്ന സമയത്ത് നിങ്ങളുടെ ലാച്ച് വീണ്ടും അടച്ചിരിക്കുന്നു അതിനാൽ ഡി യുടെ അവസാന മൂല്യം എന്തായിരുന്നാലും ഈ 1 ഈ 1 നിലനിൽക്കും അതിനാൽ ക്യൂവിന്റെ അന്തിമ മൂല്യം 1 ശരിയാകും ഇതാണ് അതിനാൽ ക്ലോക്ക് ഉയർന്ന സമയത്തെ മുഴുവൻ സമയത്തും ലാച്ച് സജീവമായി അല്ലെങ്കിൽ തുറന്നിരിക്കും അതിനാൽ സാധാരണഗതിയിൽ ലാച്ച് ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ ഉയർന്ന സമയ ആവശ്യകത കാരണം ഞാൻ അത് ഉയർന്നിടത്തോളം കാലം ഇൻപുട്ട് മാറുകയാണെങ്കിൽ ഔട്ട്പുട്ടും മാറും അത് ഡ്രൈവ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയും ശല്യപ്പെടുത്തരുത് പക്ഷേ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുകയാണെങ്കിൽ ലാച്ച് അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ നിങ്ങൾക്ക് മികച്ച പ്രകടനവും വേഗതയേറിയ സർക്യൂട്ടുകളും നൽകും ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ പിന്നീട് കാണും അതിനാൽ ചില ഉയർന്ന പ്രകടന സർക്യൂട്ടുകൾ സാധാരണയായി ലാച്ചുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഗേറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ലളിതമായ ലാച്ച് ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ ഒരു ലളിതമായ ഡി ടൈപ്പ് ലാച്ച് കാണിക്കുന്നത് 4 രണ്ട് ഇൻപുട്ട് NAND ഗേറ്റുകൾ ഉൾക്കൊള്ളുന്നു അതിനാൽ ക്ലോക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാം ക്ലോക്ക് ഇൻപുട്ട് 1 ആണെന്ന് പറയട്ടെ ഈ ക്ലോക്ക് ഇൻപുട്ട് 1 അതിനാൽ ഡി യിൽ ഔ ട്ട്പുട്ടിൽ നമുക്ക് ഡി ബാർ ലഭിക്കും ഈ ഡി ബാർ ലഭിക്കും ഇവിടെ വരൂ ക്ലോക്ക് 1 ആണ് ഞങ്ങൾക്ക് ഇവിടെ ഡി ലഭിക്കും അതിനാൽ ഞങ്ങൾ ഡി പ്രയോഗിച്ചാൽ ഈ വരി ഡി ആകും ഈ ലൈൻ ഡി ബാർ ആയിരിക്കും ഇത് ഒരു ക്രോസ് കപ്പിൾഡ് ലാച്ച് ആണ് ഇത് ഡി ബാർ ആണെങ്കിൽ ഒടുവിൽ ഡി യുടെ മൂല്യം ഇവിടെ സംഭരിക്കപ്പെടും അത് ഡി ആണെങ്കിൽ മൂല്യം ഡി ബാർ ഇവിടെ സംഭരിക്കപ്പെടും അതിനാൽ D യുടെ മൂല്യം ആത്യന്തികമായി സംഭരിക്കപ്പെടുകയും Q ൽ ലഭ്യമാകുകയും ചെയ്യും കൂടാതെ D ബാർ Q ബാറിൽ ലഭ്യമാകും എന്നാൽ ക്ലോക്ക് 0 ആണെങ്കിൽ NAND ഗേറ്റിന്റെ ഈ രണ്ട് ഇൻപുട്ടുകളും 0 ഉം 0 ഉം ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ രണ്ട് ഔട്ട്പുട്ടുകളും 1 ഉം 1 ഉം ഇത് 1 ഉം ഇതും 1 അതിനാൽ ഇവിടെ എന്താണെങ്കിലും Q Q കൂടാതെ 1 Q ബാർ Q ബാർ 1 Q എന്നിവ ആയിരിക്കും അതിനാൽ സംഭരിച്ചിരിക്കുന്നതെന്തും ശരിയായി നിലനിൽക്കും അതിനാൽ ക്ലോക്ക് 1 ആകുന്നതുവരെ ഡിയുടെ മൂല്യം സംഭരിക്കപ്പെടും എന്നാൽ ക്ലോക്ക് 0 ആകുമ്പോൾ സംഭരിക്കുന്നതെന്തും നിലനിർത്തും അതിനാൽ ഒരു ലളിതമായ ലാച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നന്നായി അതിനാൽ ഇപ്പോൾ ഈ ലാച്ചുകൾ നമുക്ക് നോക്കാം MOS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവ എങ്ങനെ നടപ്പാക്കാം കാരണം VLSI ചിപ്പുകളിൽ ഞങ്ങൾ സാധാരണയായി NAND ഗേറ്റുകൾ ഉപയോഗിച്ച് ഇതുപോലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നടപ്പിലാക്കുന്നില്ല അതിനാൽ ലാച്ചുകളുടെയും സംഭരണ ചക്രങ്ങളുടെയും രൂപകൽപ്പനയിൽ കൂടുതൽ കോംപാക്റ്റുകൾ ഉണ്ട് അതിനാൽ CMOS സാങ്കേതികവിദ്യ ലാച്ചുകൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്നിവയിൽ അവ സാധാരണയായി CMOS ഇൻവെർട്ടറുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു അതായത് ഗേറ്റുകളും ചില CMOS സ്വിച്ചുകളും അല്ല അപ്പോൾ ഒരു CMOS സ്വിച്ച് എന്താണ് അതിനാൽ ഒരു CMOS സ്വിച്ച് ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് പോലെയാണ് അതിനാൽ സ്വിച്ച് ഓണാണെങ്കിൽ ഇൻപുട്ടിലെ ചില പ്രയോഗിച്ച വോൾട്ടേജ് ഔട്ട്പുട് ലേക്ക് പോകും സ്വിച്ച് ഓഫാണെങ്കിൽ ആ വോൾട്ടേജ് പോകില്ല അതിനാൽ ഇത് ഓൺ അല്ലെങ്കിൽ ഓഫ് സ്വിച്ച് ആണ് അതിനാൽ ഒന്നുകിൽ ഒരു വോൾട്ടേജ് കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഈ സ്വിച്ചുകൾ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഞങ്ങൾ കാണും അതിനാൽ സ്വിച്ചുകൾ 2 തരത്തിലാകാം ഒന്നിനെ പാസ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു അത് നടപ്പിലാക്കുന്നതിന് ഒരു ട്രാൻസിസ്റ്റർ ആവശ്യമാണ് കൂടാതെ നിങ്ങൾക്ക് രണ്ട് ട്രാൻസിസ്റ്ററുകൾ ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പുംp type and one n type അടങ്ങുന്ന ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് ഉണ്ടായിരിക്കാം പാസ് ട്രാൻസിസ്റ്ററിന്റെ ഒരു പോരായ്മ അതിന് കുറച്ച് വോൾട്ടേജ് അപചയം സംഭവിക്കാം എന്നതാണ് ഞാൻ എങ്ങനെ കാണിക്കും നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ നിങ്ങൾ ആദ്യം പാസ് ട്രാൻസിസ്റ്റർpass transistor അതിനാൽ ഒരു പാസ് ട്രാൻസിസ്റ്റർ ഇതുപോലെ കാണപ്പെടുന്നു എനിക്ക് ഒരു ലളിതമായ n തരം ട്രാൻസിസ്റ്റർ ഉണ്ട് ഇത് എന്റെ ഇൻപുട്ട് ആണെന്ന് കരുതുക X എന്ന് പറയട്ടെ ഇത് എന്റെ ഔട്ട്പുട്ട്പുട്ട് ആണ് നമുക്ക് Y എന്ന് പറയാം ഇത് എന്റെ കൺട്രോൾ ഇൻപുട്ട് C ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ n ടൈപ്പ് ഇൻവെർട്ടറിന് ഉദാഹരണത്തിന് N ടൈപ്പ് MOS ട്രാൻസിസ്റ്ററിന് C 1 ന് തുല്യമായ ഒരു n ടൈപ്പ് ട്രാൻസിസ്റ്ററിനോട് ക്ഷമിക്കണം അതായത് ട്രാൻസിസ്റ്റർ T അത് വഹിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് C 0 ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫാണ് അത് നടത്തുന്നില്ല അതിനാൽ സി 0 ആയിരിക്കുമ്പോൾ അതിനർത്ഥം എനിക്ക് ഒരു തുറന്ന സ്വിച്ച് ഉണ്ടെന്നാണ് അതിനാൽ സി 0 ആണെങ്കിൽ എനിക്ക് തുറക്കാൻ തുല്യമായ Y ഉണ്ട് നമുക്ക് തുറന്ന് എഴുതാം അതിനാൽ ഈ X Y ലേക്ക് വരുന്നില്ല എന്നാൽ C 1 ആണെങ്കിൽ X വരുന്നത് Y ആണ് എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നം n ടൈപ്പ് ട്രാൻസിസ്റ്ററിന്റെ പ്രോപ്പർട്ടി കാരണം എനിക്ക് കൺട്രോൾ ഇൻപുട്ട്1 ഉണ്ടെന്ന് കരുതുക ഈ സ്വിച്ച് ആയിരിക്കണം അതിനാൽ ഈ കേസിൽ X 0 വോൾട്ടിന് തുല്യമായ വോൾട്ടേജ് വളരെ കുറവാണെങ്കിൽ Y ഉം വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതെ 0 വോൾട്ട് ആയിരിക്കും എന്നാൽ X ഉയർന്ന വോൾട്ടേജിന് തുല്യമാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ 2 വോൾട്ടിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയട്ടെ ഞാൻ 2 വോൾട്ട് പ്രയോഗിക്കുന്നുവെന്ന് പറയുക അപ്പോൾ 2 മൈനസ് V ത്രെഷോൾഡ്2 minus V threshold V thresholdആയിരിക്കും V ത്രെഷോൾഡ് ഒരു ചെറിയ വോൾട്ടേജാണ് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും അതിനാൽ ഞാൻ ഒരു ഉയർന്ന വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വിച്ച് നിങ്ങൾ കാണുന്നു ഇൻപുട്ടിൽ ലോജിക് 1 സൂചിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാം അതിനാൽ ഔട്ട്പുട്ട് വലതുവശത്ത് ഒരു വോൾട്ടേജ് ഡീഗ്രേഷൻഉണ്ടാകും ഇത് ഒരു പോരായ്മയാണ് അതിനാൽ ഈ പോരായ്മ നീക്കംചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് വിളിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് ട്രാൻസ്മിഷൻ ഗേറ്റ് പതിവുപോലെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു N തരം ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് ഞാൻ കാണുന്നു ഞാൻ ഇവിടെ X പ്രയോഗിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് Y എടുക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ കൺട്രോൾ സി പ്രയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ റിവേഴ്സ് സി ബാർപ്രയോഗിക്കും ഈ n ടൈപ്പ് പി ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുടെ ഒരു സ്വത്ത് നിങ്ങൾ കാണുന്നു ഞാൻ പറഞ്ഞതുപോലെ ഈ n ടൈപ്പ് ട്രാൻസിസ്റ്ററിന് 0 നന്നായി ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ലോജിക്ക് 1 ന് ഒരു വോൾട്ടേജ് ഡീഗ്രഡേഷൻഉണ്ട് എന്നാൽ p ടൈപ്പ് ട്രാൻസിസ്റ്ററിന് ഇത് വിപരീതമാണ് അത് യുക്തി 1 നന്നായി കൈമാറാൻ കഴിയും പക്ഷേ യുക്തി 0 ന് ഒരു അപചയംഉണ്ടാകും അതിനാൽ ഞാൻ ഒരു n ടൈപ്പും p ടൈപ്പും സമാന്തരമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ 0 1 എന്നിവ രണ്ടും ഒരു തരംതാഴ്ത്തലും കൂടാതെ കൈമാറ്റം ചെയ്യപ്പെടും അതിനാൽ ഈ ട്രാൻസ്മിഷൻ ഗേറ്റിന് ലോജിക് 0 ലോജിക് 1 എന്നിവ ഔട്ട്പുട്ടിലേക്ക് ഒരു തരംതാഴ്ത്തലും കൂടാതെ കൈമാറാൻ കഴിയും അതുകൊണ്ടാണ് സാധാരണയായി പല ഡിസൈനിനും നമ്മൾ പാസ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാതിരിക്കുന്നത് പകരം നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ പാസ് ട്രാൻസിസ്റ്ററുകളും ട്രാൻസ്മിഷൻ ഗേറ്റുകളുംഉപയോഗിക്കുന്ന ലാച്ചുകളുടെ ഉദാഹരണങ്ങൾ ഞങ്ങൾ കാണിക്കുന്നു ഇവിടെ ഞാൻ ഒരു ലളിതമായ CMOS ലാച്ച് കാണിക്കുന്നു അത് എങ്ങനെ കാണപ്പെടുന്നു ഇവിടെ രണ്ട് പിന്നിലേക്ക് ഇൻവെർട്ടറുകൾ ഉണ്ട് നോട്ട് ഗേറ്റ് സിഎംഒഎസ് നോട്ട് ഗേറ്റ് സിഎംഒഎസ് നോട്ട് ഗേറ്റ്p തരം ട്രാൻസിസ്റ്റർ n തരം ട്രാൻസിസ്റ്ററിൽ ക്ലോക്ക് ബാർ പ്രയോഗിക്കുന്നു ക്ലോക്ക് 0 ആയിരിക്കുമ്പോൾ ഈ ഗേറ്റ് നടത്തപ്പെടും അതായത് ക്ലോക്ക് 0 ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു ക്രോസ് കപ്പിൾ ഇൻവെർട്ടർ ഉണ്ട് അത് സ്ഥിരതയുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കും അതിനാൽ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിൽ ഞങ്ങൾ രണ്ട് ഇൻവെർട്ടറുകൾ കണക്റ്റുചെയ്തിരിക്കുമ്പോഴെല്ലാം അത് ഒരു സ്റ്റോറേജ് സിസ്റ്റമോലാച്ചോ ആകും ഡാറ്റ അനിശ്ചിതമായി സംഭരിക്കപ്പെടും അതിനാൽ ഇവിടെ ക്ലോക്ക് 0 ആണെങ്കിൽ ഞങ്ങൾക്ക് അത്തരമൊരു സംവിധാനം ഉണ്ടാകും എന്നാൽ ക്ലോക്ക് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് തുറക്കും പക്ഷേ ഈ സ്വിച്ച് അടച്ചിരിക്കുന്നു അതിനാൽ ക്ലോക്ക് 1 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓണാണ് ഈ ഗേറ്റ് ഓണാണ് ഡിയിൽ ഞാൻ അപേക്ഷിച്ചതെന്തും Q ൽ സംഭരിക്കപ്പെടും അതിനാൽ ഈ ഡി Q ലേക്ക് പോകും അതിനുശേഷം ക്ലോക്ക് 0 ലേക്ക് മടങ്ങുമ്പോൾ വീണ്ടും ഈ ട്രാൻസിസ്റ്റർ ഓഫാകും ഇത് ഓണാകും Q ലെ അവസാന മൂല്യവും ശരിയായി നിലനിൽക്കും അതിനാൽ ഈ CMOS ലാച്ച് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ക്ലോക്ക് 1 ന് തുല്യമാകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ക്ലോക്കിന് തുല്യമായിരിക്കും ക്ലോക്ക് 0 ന് തുല്യമാകുമ്പോൾ ഇത് നടത്തപ്പെടും ഇവ രണ്ടും വിപരീതമാണ് എനിക്ക് ഇത് 0 ആയി വായിക്കാം 1 ആയി വായിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് നടക്കും 1 പിന്നീട് നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നീങ്ങുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സാധാരണയായി ക്ലോക്കിന്റെ അരികിൽ സജീവമാകുന്നത് ഉയരുകയോ താഴുകയോ ചെയ്യുക അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ NAND ഗേറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗർചെയ്ത ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒരു സാധാരണ ഡയഗ്രമാണ് ഇത് അടിസ്ഥാന ആശയം നിങ്ങൾക്ക് ഡാറ്റ സംഭരിക്കുന്ന ലാച്ച് ഇവിടെയുണ്ട് തുടക്കത്തിൽ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന സർക്യൂട്ട് ഇത് യഥാർത്ഥത്തിൽ ക്ലോക്ക് എഡ്ജ്ക്ലോക്ക് edgeസംഭരിക്കാനും പിടിച്ചെടുക്കാനും ഡി യുടെ മൂല്യം സംഭരിക്കാനും പിടിച്ചെടുക്കാനും ഉപയോഗിക്കുന്നു അടുത്ത ലാച്ച് ഘട്ടത്തിലേക്ക് അത് നൽകുകയും അത് സംഭരിക്കപ്പെടുകയും ചെയ്യും അതിനാൽ അടിസ്ഥാനപരമായി ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്ത D ഫ്ലിപ്പ് ഫ്ലോപ്പിന് അത്തരം 6 NAND ഗേറ്റുകൾ ആവശ്യമാണ് മറ്റ് ഡിസൈനുകളും സാധ്യമായ ഡിസൈനുകളിൽ ഒന്നാണിത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് ഘട്ട ക്ലോക്കിംഗ് കാണിക്കുന്നു ഡയഗ്രമുകളുടെ ലാളിത്യത്തിനായി ഞാൻ ട്രാൻസ്മിഷൻ ഗേറ്റുകൾ കാണിക്കുന്നു ഞാൻ കാണിക്കുന്നത് ലളിതമായ പാസ് ട്രാൻസിസ്റ്ററുകളാണ്ട്രാൻസ്മിഷൻ ഗേറ്റുകളല്ല അതിനാൽ ഇവിടെ എനിക്ക് ഒരു ലാച്ച് ഉണ്ട് ഇവിടെ എനിക്ക് ഒരു ലാച്ച് ഉണ്ട് അതിനാൽ ഞാൻ ഈ ഫൈയും ഫൈ ബാർ കാണിക്കുന്നില്ല ഞാൻ അവർക്ക് ഒരു ഫി 1 ഫൈ 2 ഫൈ 1 ഫൈ 2phi 1 and phi 2 phi 1 and phi 2 എന്നിവ കാണിക്കുന്നു ഇപ്പോൾ ഈ ഫി 1 ഫൈ 2എന്നിവ രണ്ട് ഘട്ട ഘടികാരങ്ങളാണെന്ന് പറയപ്പെടുന്നു ക്ലോക്കിംഗ് ഇതായിരിക്കും ഞാൻ ബന്ധം കാണിക്കുന്നു അതിനാൽ നിശ്ചിത കാലയളവിൽ ph 1 സജീവമാണെന്ന് നിങ്ങൾ കാണുന്നു മറ്റേതെങ്കിലും കാലയളവിൽ ph 2 നിശ്ചയമാണ് നമുക്ക് അവയെ T1 T2 എന്ന് വിളിക്കാം ഈ രണ്ട് കാലാവധികളും പരസ്പരവിരുദ്ധമാണ് അവ കൃത്യസമയത്ത് ഓവർലാപ്പ് ചെയ്യുന്നില്ല ഒരു ക്ലോക്ക് ഉപയോഗിക്കുന്നതിനുപകരം ഇതാണ് പോയിന്റ് ഇത് അഭിനന്ദനമാണ് ഞാൻ രണ്ട് ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നു അതായത് കാലാനുസൃതമായി പരസ്പരവിരുദ്ധത അവ ഓവർലാപ്പ് ചെയ്യുന്നില്ല അതിനാൽ ഈ ഡയഗ്രാമിൽ phi 1 ആയിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓഫാണ് ഇത് വെട്ടിക്കളഞ്ഞു ഡിയിൽ പ്രയോഗിക്കുന്നതെന്തും ഇവിടെ വന്ന് ഇവിടെ സംഭരിക്കപ്പെടും phi 1 ആയിരിക്കുമ്പോൾ ഈ ലൂപ്പ് ഓണാണ് ഇവിടെ സംഭരിക്കുന്നത് സംഭരിക്കുകയും phi 2 ഓണായിരിക്കുകയും phi 1 ഓഫാവുകയും ചെയ്യുമ്പോൾ വിപരീതം സംഭവിക്കും അതിനാൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്തും ഇവിടെ നിലനിൽക്കും ഇവിടെയുള്ളത് ഇവിടേക്ക് മാറ്റപ്പെടും അതിനാൽ ഇത് രണ്ട് ലാച്ചുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സാധാരണ മാസ്റ്റർ സ്ലാവ് തരംഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇത് ആദ്യ ലാച്ച് ഇത് രണ്ടാമത്തെ ലാച്ച് അതിനാൽ ഡി ടൈപ്പ് സ്റ്റോറേജുംമറ്റൊരു ഡി ടൈപ്പ് സ്റ്റോറേജും അടങ്ങുന്ന ഒരു മാസ്റ്റർ സ്ലേവ് ലാച്ചിന്റെ കൂടുതൽ പരമ്പരാഗത ഡയഗ്രമാണ് ഇത് അതിനാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ക്ലോക്ക് ഉപയോഗിക്കാം അത് പൂരകമാണ് അല്ലെങ്കിൽ രണ്ട് ഘട്ട ക്ലോക്ക് phi 1 phi 2 എന്നിവ രണ്ടും പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനാൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന മിക്ക സിസ്റ്റങ്ങളുടെയും നിയമമെന്ന നിലയിൽ ക്ലോക്ക് സ്കേ 10 ശതമാനത്തിനുള്ളിൽ പരിമിതപ്പെടുത്തണം അതിനാൽ നമുക്ക് ചില ക്ലോക്ക് സ്ക്യൂ ഉണ്ടെങ്കിലും അനുവദനീയമായ പരമാവധി ക്ലോക്ക് സ്ക്യൂ സാധാരണയായി 10 ശതമാനം നിയമമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു നല്ല ക്ലോക്ക് വിതരണ തന്ത്രം ആവശ്യമാണ് അത് ഞങ്ങൾ അടുത്തതായി നോക്കും ഞാൻ പറഞ്ഞതുപോലെ ഉയർന്ന പെർഫോമൻസ് സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു ആവശ്യകതയാണിത് കാരണം ഞങ്ങൾക്ക് ഉയർന്ന ആവൃത്തികളുടെ ക്ലോക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ശരി നിങ്ങൾ ഒരു പൈപ്പ്ലൈനിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചു അതിനാൽ നിങ്ങൾക്ക് തുടർച്ചയായ ഘട്ടങ്ങളുണ്ട് അവയ്ക്കിടയിൽ ഒരു സംയോജിത സർക്യൂട്ട്ഉണ്ട് അതിനാൽ ഞാൻ ഒരു സാധാരണ പൈപ്പ്ലൈൻ ഡയഗ്രം കാണിക്കുന്നു അതിനാൽ ഉള്ളിലുള്ളത് നിങ്ങൾ വായിക്കേണ്ടതില്ല അവയ്ക്കിടയിൽ ചില കോമ്പിനേഷൻ സർക്യൂട്ടുകൾഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നു ഈ ഓറഞ്ച് ചതുരാകൃതിയിലുള്ള ബോക്സുകൾ രജിസ്റ്ററുകളാണ് അതിനാൽ ഞാൻ പറഞ്ഞതാണ് അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് അത് രജിസ്റ്ററുകളിലേക്ക് വ്യാപിക്കുന്നു ഓരോ ക്ലോക്കിലും ഇന്റർമീഡിയറ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്intermediate combinational circuit വഴി ഒരു രജിസ്റ്ററിൽ നിന്ന് അടുത്തതിലേക്ക് ഡാറ്റ മാറുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഓരോ രജിസ്റ്ററും ചില പ്രശ്നങ്ങൾ റസസ് മറ്റ് കാര്യങ്ങൾ എന്നിവ ഒഴിവാക്കാൻ അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാസ്റ്റർ സ്ലേവ് ടെക്നോളജി മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്ഉപയോഗിച്ചാണ് ഇതിനർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് മാസ്റ്റർ ലാച്ചും ഒരു സ്ലേവ് ലാച്ചും ആവശ്യമാണ് എന്നാൽ നിങ്ങൾ കാണുക നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ പൈപ്പ്ലൈനിന്റെ ഒരു ഘട്ടം കാണിക്കുന്നു ഇവ രണ്ട് രജിസ്റ്ററുകളാണ് അതിൽ കൂടുതൽ ഉണ്ട് ഇതിനിടയിൽ ചില കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ട് രജിസ്റ്റർ ഈ കോമ്പിനേഷൻ സർക്യൂട്ടിന് ഫെഡ് നൽകുന്നു ഇത് ഇവിടെ ഫെഡ് നൽകുന്നു അതിനാൽ സാധാരണയായി ഒരേ ക്ലോക്ക് ഫെഡ് ചെയുന്നു ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ph 1 ഉം ഇവിടെ 2 ഉം നൽകാം ഈ രണ്ട് ലാച്ചുകളും ഞാൻ അവരെ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പായി ഉപയോഗിക്കുന്നില്ല മറിച്ച് ഒരു സിംഗിൾ സ്റ്റേജ് ലാച്ചുകളാണ് ഒറ്റ സ്റ്റേജ് ലാച്ച് അതിനാൽ ഫി 1 ഫൈ 2എന്നിവ മാറിമാറി വരും അടുത്തത് ഫൈ 1 ആയിരിക്കും അടുത്തത് ഫൈ 2 ആയിരിക്കും അതിനാൽ അവർ ഒരു ലാച്ചിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങും ഇത് മാസ്റ്റർ ഇത് സ്ലാവ് ആണ് പക്ഷേ ഇത് ഇന്റർമീഡിയറ്റ് കോമ്പിനേഷണൽ സർക്യൂട്ടിലൂടെintermediate combinational circuit കടന്നുപോകുന്നു അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ലാച്ചുകൾ ലളിതമാക്കുന്നു എന്നതാണ് അതിനാൽ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾഉപയോഗിക്കുന്നതിനുപകരം നമുക്ക് ലളിതമായ സിംഗിൾ സ്റ്റേജ് ലാച്ചുകൾഉപയോഗിക്കാം അതിനാൽ ഇത് പ്രദേശം സംരക്ഷിക്കുന്നു അതിനാൽ ഇതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് രജിസ്റ്ററുകളിൽ സിംഗിൾ ഫേസ് ലാച്ചുകൾഉപയോഗിക്കാം കൂടാതെ പൈപ്പ് ലൈനും ഇതര ഘട്ടങ്ങളും ph 1 അല്ലെങ്കിൽ phi 2 പോലുള്ള phi 1 phi 2 phi 1 phi 2 പോലെ ക്ലോക്ക് ചെയ്യാവുന്നതാണ് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച തുടരും ക്ലോക്ക് വിതരണത്തെയും ക്ലോക്ക് നെറ്റ്വർക്കുകളെയും കുറിച്ച് കൂടുതൽ കാണാം